മുൻപ് നമ്മൾ ചില റിയൽ ടൈം ടാസ്ക്സ് ഷ്ഡ്യൂളിങ് അല്ഗോരിതംസ് നോക്കിയിരുന്നു പ്രാരംഭത്തിൽ നമ്മൾ ലളിതമായ ക്ലോക്ക് ഡ്രൈവ്എൻ ഷ്ഡഡ്യൂളർ നോക്കി പിന്നെ നമ്മൾ ഇവന്റ് ഡ്രൈവ്എൻ ഷ്ഡ്യൂളർ നോക്കിയിരുന്നു പ്രാരംഭത്തിൽ നമ്മൾ EDF പറ്റി ചർച്ച ചെയ്തു പിന്നീട് നമ്മൾ റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളർ ചർച്ച ചെയ്തു അതോടൊപ്പം റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളറുടെ അൽഗോരിതം വളരെ ലളിതം ആണെന്നും നമ്മൾ കണ്ടു ഇതു പ്രീ എംപ്റ്റീവ് ഷ്ഡ്യൂളർ ആണ് അതിനോടൊപ്പം ടാസ്കുകളിക് അവരുടെ വരവിന്റെ ഫ്രീക്യുൻസി അനുസരിച്ചു നമ്മൾ പ്രിയോറിറ്റി നൽകുന്നു പിന്നിട്ട് നമ്മൾ ചില ഗണിതപരമായ വിശകലനം നടത്തുന്നു ടാസ്ക് സെറ്റ് അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കുന്നുണ്ടോയെന് നോക്കാൻ അതോടൊപ്പം നമ്മൾ 3 ഫലം കൂടി നോക്കുന്നു ആദ്യതെത് ഒരു ടാസ്ക് സെറ്റ് ഷ്ഡ്യൂൽ ചെയാൻ യൂട്ടിലൈസഷൻ 1ന്നു താഴെ ആകണം പക്ഷെ അതൊരു വേണ്ട നിബന്ധന ആണ് എലാം തികനത്തു അല്ല അതായത് ലിയു ലെയ്ലാൻഡ് നിബന്ധന n12n 1 നമ്മൾ ഈ എക്സ്പ്രഷ്ൻ കണ്ടിരുന്നു അതോടൊപ്പം യൂട്ടിലൈസഷൻ കുറവ് ആയിരിക്കണം ഒരു ടാസ്ക് സെറ്റ് ഷ്ഡ്യൂളബിൽ ആകാൻ എന്നാൽ ഇതൊരു പെസിമിസ്റ്റിക് നിബന്ധന ആണ് കാരണം ഒരു ടാസ്ക് സെറ്റ് ലിയു ലെയ്ലാൻഡ് നിബന്ധന പാലിച്ചില്ലെകിലും അതു ഫീസിബിൽ ആയി ഷ്ഡ്യൂൽ ചെയാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ലിയു ലെയ്ലാൻഡ് തിയറം കൂടി നോക്കി ലിയു ലഹോക്സ്ക്യ് ക്രൈറ്റീരിയൻ പ്രധാന ഐഡിയ എന്താണ് വെച്ചാൽ എല്ലാ ടാസ്കുകളും ഒരുമിച്ചു വന്നാൽ വേർസ്റ് കേസ് അവസ്ഥ ഉണ്ടാകുന്നു ടാസ്കുകൾ അവരുടെ ആദ്യ ഡെഡ്ലൈൻ പാലിക്കുന്നിലെക്കിൽ ടാസ്ക് അവരുടെ ഡെഡ്ലൈൻ എല്ലാ ഫേസിങ്ലും പാലികും അതോടൊപ്പം തിയറമ് അനുസരിച്ചു ടാസ്ക് സെറ്റ് അതിന്ടെ ആദ്യ ഡെഡ്ലൈൻ 0 ഫേസിങ്ഇൽ പാലിച്ചാൽ പിന്നെ എല്ലാ ഫാസിങ്ങിലും ടാസ്ക് സെറ്റ് ഡെഡ്ലൈൻ പാലിക്കും ഇതു ഗ്രാഫിക്കലി നമ്മൾ പരിശോദിക്കുന്നു അതായത് ടാസ്ക് സെറ്റ് അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കുമോ എന്നത് ഇതു കുറച്ചു ബുദ്ധിമുട്ട് ആണ് അതിനു ശേഷം നമ്മൾ മാത്തമറ്റിക്കൽ എക്സ്പ്രഷ്ൻ നോക്കുന്നു അതു ടാസ്ക് സെറ്റ് അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കുമോ എന്നു പറയുന്നു ആദ്യ ഡെഡ്ലൈൻ പാലിക്കുന്ന ടാസ്ക് Ti expression ei ∑⌈ pipj⌉∗ejpi നമ്മൾ കണ്ടു ഈ എക്സ്പ്രഷ്ൻ പിന്നിലെ ഐഡിയ പറയുന്നത് എപ്പോഴെലാം ഉയർന്ന പ്രിയോറിറ്റി ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ ടാസ്കിനു റൺ ചെയാൻ കഴിയില്ല അതോടൊപ്പം ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ റൺ ചെയ്യന്നു അതോടൊപ്പം ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ 0 ഫേസിങ്ഇൽ റൺ ചെയുന്നു അതാണ് ഉയർന്ന പ്രിയോറിറ്റി ആയി ഫേസ്ഇൽ വന്ന ടാസ്ക് അതു ⌈pipj⌉∗e ആണ് ഉദാഹരണത്തിന് ഒരു ടാസ്ക് പീരീഡ് 20 ആണ് അതോടൊപ്പം ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ഒരു ടാസ്കിന്റെ പീരീഡ് 7ഉം അങ്ങനെയെന്ക്ക് ⌈207⌉3 ആണ് അതായത് 3 തവണ മിക്ക pj pi കു ഉളിൽ ഉണ്ടാകുന്നു അതു 20 ആണ് കാരണം pj എല്ലാ 0ഇലും ഒരിക്കൽ നടക്കുന്നു 7ഇൽ ഒരു തവണ വീണ്ടും 14ഇൽ ഒരു തവണ അതുകൊണ്ട് നമുക്ക് അതു ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കിനു വേണ്ടി ജനറലൈസ് ചെയാം ⌈pipj⌉∗e കാരണം ഓരോ തവണ ടാസ്ക് j ഉണ്ടാകുമ്പോൾ അതു ⌈pipj⌉∗e റൺ ആകുന്നു അതാണ് ഉയർന്ന പ്രിയോറിറ്റി ഉള്ള Tj റൺ ആകാൻ എടുക്കുന്ന സമയം അതോടൊപ്പം അതു നമ്മൾ എല്ലാ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾക്കും പരിഗണിക്കണം j1 to i 1 j എല്ലാ ടാസ്ക് Ti കും ഈ കണ്ടിഷൻ പാലിക്കപ്പെടുന്നുണ്ടോ എന്നു പരിശോധിക്കണം ഈ നിബന്ധന എല്ലാ ടാസ്കുകൾക്കും ആണെകിൽ നമക്ക് പറയാം ഈ ടാസ്ക് സെറ്റ് അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കപെടുന്നുണ്ട് എന്നു ലിയു ലെയ്ലാൻഡ് അതുപോലെ ലിയു ലഹോക്സ്ക്യ് എക്സ്പ്രഷൻ അടിസ്ഥാനത്തിൽ ഉള്ള ചില ഉദാഹരണങ്ങൾ ഇവിടെ ആദ്യം നമ്മൾ പരിഗണിക്കുന്ന ഉദാഹരണം 3 ടാസ്കുകളുടെ ആണ് T1 T2 പിന്നെ T3 അതിൽ T1ന്ടെ നിർവഹണാ സമയം 20മില്ലിസെക്കൻഡും അതിന്ടെ പീരിഡ് p1 100ഉം e2 30 മില്ലിസെക്കൻഡും p2 150ഉം e3 60 മില്ലിസെക്കൻഡും p3 200 മില്ലിസെക്കൻഡും ആണ് റേറ്റ് മോനോടോണിക് അനാലിസിസ് വഴി T1ന്നു നമ്മൾ ഉയർന്ന പ്രിയോറിറ്റി നൽകുന്നു കാരണം അതിന്ടെ പീരീഡ് ചെറുത് ആണ് അടുത്ത ഉയർന്ന പ്രിയോറിറ്റി T2നും ഏറ്റവും താഴ്ന്ന പ്രിയോറിറ്റി T3കു ആണ് റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളിങ്ന്ടെ പ്രിയോറിറ്റി അസ്സൈന്മെന്റ് വഴി ടാസ്ക് സെറ്റ്ന്ടെ ഡെഡ്ലൈൻ പാലിക്കപ്പെടുന്നുണ്ടോ എന്നു നമുക്ക് നോക്കാം നമ്മൾ പരിശോദിക്കുന്ന ആദ്യ കാര്യം ലിയു ലെയ്ലാൻഡ് ക്രൈറ്റീരിയൻ ആണ് പല ടാസ്കുകളുടേം യൂട്ടിലൈസഷൻ നമ്മൾ കണക്കു കൂടുന്നു അതിൽ ആദ്യത്തെ ടാസ്ക് 20100ഉം രണ്ടാമത്തെ 30150ഉം അതുപോലെ മൂന്നാമത്തെ 60200ഉം ആണ് പിന്നെ നമുക്ക് ∑ui0 7 കിട്ടി അത് ടാസ്കുകളുടെ യൂട്ടിലൈസഷൻ ആണ് അതുപോലെ ലിയു ലെയ്ലാൻഡ് ബൌണ്ട് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ എന്നും നോക്കേണ്ടത് ഉണ്ട് 3 ടാസ്കുകളുടേം ലിയു ലെയ്ലാൻഡ് ബൌണ്ട് 3213−1 ആണെന്നും അതു സിംപ്ലിഫയ് ചെയുമ്പോൾ ലിയു ലെയ്ലാൻഡ് ബൌണ്ട് 0 78 ആണെന്നും കണ്ടെത്തി ടാസ്ക് സെറ്റിന്റെ യൂട്ടിലൈസഷൻ 0 70 78 ആണ് അതുകൊണ്ട് ടാസ്ക് സെറ്റ് അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കുമെന്നു നമുക്ക് പറയാൻ സാധിക്കുന്നു മുകളിൽ നിന്നും ലിയു ലെയ്ലാൻഡ് ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈഡ് ആയെന്നു ടാസ്ക് സെറ്റ് ഷ്ഡ്യൂളബിൽ ആണെന്നും നമുക്ക് വിശകലനം ചെയാം നമുക്ക് വ്യത്യ്സടാ ടാസ്ക് സെറ്റ് നോക്കാം അതിൽ ആദ്യടെ ടാസ്കിന്റെ എക്സിക്യൂഷൻ ടൈംഉം പീരീഡ്ഉം 20മില്ലിസെക്കൻഡും 100 മില്ലിസെക്കൻഡും ആണ് രണ്ടാമത്തെ ടാസ്ക് 30 മില്ലിസെക്കൻഡും 150മില്ലിസെക്കൻഡും ആണ് അതുപോലെ മൂന്നാമത്തെ ടാസ്ക് 90മില്ലിസെക്കൻഡും 200മില്ലിസെക്കൻഡും ആണ് യൂട്ടിലൈസഷൻ പരിശോധിക്കാൻ eipi ∑ui201003015090200 അതായത് ∑ui510600 0 85 അതോടൊപ്പം 3 ടാസ്കുകളുടെ ലിയു ലെയ്ലാൻഡ് ബൌണ്ട് 0 78 ആണ് ഇതു ലിയു ലെയ്ലാൻഡ് ബൌണ്ട് കടക്കുന്നു അതായത് ഇതു ലിയു ലെയ്ലാൻഡ് ടെസ്റ്റിൽ പരാചയപെടുന്നു ലിയു ലെയ്ലാൻഡ് പ്രകാരം അതു ഷ്ഡ്യൂളബിൽ അല്ല പക്ഷെ ലിയു ലെയ്ലാൻഡ് ഒരു പെസിമിസ്റ്റിക് ഫലം ആണ് അതുകൊണ്ട് ലിയു ലഹോക്സ്ക്യ് കംപ്ലീഷൻ ടൈം തിയറം ഉപയോഗിച്ച് അത് ഷ്ഡ്യൂളബിൽ ആണോ അല്ലയോ എന്നു നമുക്ക് അറിയാൻ സാധിക്കും ആദ്യം കാര്യം ഗ്രാഫിക്കൽ ആയി ഇത് പ്ലോട്ട് ചെയുക എന്നത് ആണ് അതു 0 ഫേസിങ്ഇൽ നിബന്ധനയിൽ എല്ലാ ടാസ്കുകളും അതിന്ടെ ആദ്യ ഡെഡ്ലൈൻ പാലിക്കുന്നുണ്ടോ എന്നു നോക്കുന്നു അതു പാലിക്കുന്നുണ്ടെകിൽ ടാസ്ക് സെറ്റ് ഷ്ഡ്യൂളബിൽ ആണ് അതു ഒരു നൈവ് അപ്പ്രോച് ആണ് T1ഇൽ തുടങ്ങി അതാണ് ഏറ്റവും ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് അതു T2നും T3കും ഒപ്പം വന്നാലും ആദ്യം റൺ ചെയുനതു T1 ആയിരിക്കും അതു മാത്രമല്ല അതിന്ടെ ഡെഡ്ലൈൻ 100 ആണെകിലും അതു 20ഇൽ പൂർത്തിയാകും അതുകൊണ്ട് T1 അതിന്ടെ ആദ്യ ഡെഡ്ലൈൻ പൂർത്തിയാകുന്നു T2നു 30 മില്ലിസെക്കൻഡ്സ് എടുക്കും അതിന്ടെ പീരീഡ് 150ഉം ആണ് T2വിന്ടെ ആദ്യ ഇൻസ്റ്റൻസ് 150 മില്ലിസെക്കന്റിനു മുൻപ് പൂര്തിയാകണം അതോടൊപ്പം T1ഉം T2ഉം ഒരുമിച്ചു ഉണ്ടാകുന്നതു കൊണ്ട് ആദ്യം T1 റൺ ആകുന്നു T1 പൂർത്തിയാകുന്നകൊണ്ട് T2നേ എടുക്കുന്നു T2 50മില്ലിസെക്കൻസ് റൺ ചെയുന്നു ഈ സമയം അതു പൂർത്തിയാകുന്നു പക്ഷെ അതിന്ടെ ഡെഡ്ലൈൻ 150 മില്ലിസെക്കൻഡ്സ് ആണ് ഡെഡ്ലൈനിനു ഉളിൽ T2 പൂർത്തിയാകുന്നു T2 പൂർത്തിയാകാൻ കാരണം T1ന്ടെ അടുത്ത ഇൻസ്റ്റൻസ് വരുന്നത് 100ഇൽ ആണ് മൂന്നാമത്തെ ടാസ്കിനു T3കു 90 മില്ലിസെക്കൻഡ്സ് വേണം അതോടൊപ്പം ഡെഡ്ലൈനും പീരീഡ് ഉം 200 മില്ലിസെക്കൻഡ്സ് ആണ് വീണ്ടും ഒരുമിച്ചു വരുന്ന T1 T2 T3യെ ഗ്രാഫിക്കൽ ആയി നമുക്ക് പ്ലോട്ട് ചെയാം T1ഇന് ആണ് ഉയർന്ന പ്രിയോറിറ്റി ഉള്ളത് അതു 20 മില്ലിസെക്കൻഡ്സ് റൺ ചെയുന്നു അതിന് ശേഷം T2 30 മില്ലിസെക്കൻഡ്സ് റൺ ചെയുന്നു അതോടൊപ്പം ഈ നിമിഷത്തിൽ T3കും റൺ ചെയ്തു തുടങ്ങാമ് T3കു 100മില്ലിസെക്കൻഡ് വരെ റൺ ചെയാം അതിനു ശേഷം T1ന്ടെ ഇൻസ്റ്റൻസ് വരുന്നു ഈ സമയത്തു T3 അതിന്ടെ എക്സിക്യൂഷൻടെ 50 മില്ലിസെക്കൻഡ്സ് പൂർത്തിയാകുന്നു അതിനു ശേഷം T1 പൂർത്തിയാകുന്നു പിന്നെ T2 വീണ്ടും എക്സിക്യൂട്ട് ചെയുന്നു അവസാനം T3 എക്സിക്യൂട്ട് ആകുന്നു അതോടൊപ്പം പൂർത്തിയാകുന്നു പക്ഷെ അതു ഡെഡ്ലൈൻ ഉളിൽ തന്നെ നല്ലപോലെ നില്കുന്നു ടാസ്ക് അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കാൻ തയാറാകുന്നു അതു നമ്മൾ ഗ്രാഫിക്കൽ ആയി പ്ലോട്ട് ചെയ്തിരിക്കുന്നു അതോടൊപ്പം T1ഉം T2ഉം T3ഉം അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കുന്നുണ്ടോ എന്നു നമ്മൾ പരിശോദിക്കുന്നു ഇതു ഗണിതപരമായി നമുക്ക് വിശകലനം ചെയാം വീണ്ടും നമുക്ക് 3 ടാസ്കുകൾ ഉണ്ട് അവിടെ e120ഉം p1100ഉം e230ഉം p2150ഉം e390ഉം പിന്നെ p3200ഉം ആണ് ആദ്യം ലിയു ലഹോക്സ്ക്യ് നിബന്ധന ആദ്യത്തെ ടാസ്കിനു ആയി നമ്മൾ നോക്കുന്നു T1 ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് ആണ് അത് മറ്റു ടാസ്കുകൾക്കു പ്രീ എംപ്ട് ചെയാൻ കഴിയില്ല അതുകൊണ്ട് അതു 20 മില്ലിസെക്കൻഡ് റൺ ചെയുന്നു അതിനുശേഷം അതിന്ടെ ഡെഡ്ലൈൻ എത്തുന്നു അതു 100 മില്ലിസെക്കൻഡ് ആണ് 20 100നേക്കാൾ ചെറുത് ആണ് അതോടൊപ്പം അതു T1ന്ടെ ഡെഡ്ലൈൻ നിറവേറ്റുന്നു T2വിനു 30മില്ലിസെക്കൻഡ് വേണം അതോടൊപ്പം T1 ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ഒരു ടാസ്ക് ആണ് ഇവിടെ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ഒരു ടാസ്ക് മാത്രമേ ഒള്ളു അതു 2 തവണ ഉണ്ടാകാം കാരണം ⌈150100⌉2 അതോടൊപ്പം ഓരോ തവണ റൺ ചെയാനും 20 മില്ലിസെക്കൻഡ്സ് എടുക്കും ഇവിടെ 3020270 മില്ലിസെക്കൻഡ്സ് ആണ് അതിനർത്ഥം T2 പൂർത്തിയാകാൻ 70മില്ലിസെക്കൻഡ്സ് എടുക്കുമെന്നാണ് അതിന്ടെ ഒപ്പം അതിന്ടെ പീരീഡ് 150 മില്ലിസെക്കൻഡ്സ് ആണ് ഇവിടെ ലിയു ലഹോക്സ്ക്യ് ക്രൈറ്റീരിയൻ നിറവേറുന്നു T3കു 90മില്ലിസെക്കൻഡ്സ് നിർവഹണ സമയം വേണം അതിന്ടെ പീരീഡ് 200 milliseconds ആണ് പിന്നെ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് T1 2 തവണ ഉണ്ടാകും ⌈200100⌉2 ആണ് അതായത് ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് 20240മില്ലിസെക്കൻഡ്സ് എടുക്കും രണ്ടാമത്തെ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് T2 ആണ് അതും 2 തവണ ഉണ്ടാകും കാരണം ⌈200150 ⌉2 ആണ് T3 ഓരോ തവണ ഉണ്ടാകുമ്പോഴും അതു 30മില്ലിസെക്കൻഡ്സ് നിർവഹണം നടത്തുന്നു മൊത്തം ജോലി സമയം 190 മില്ലിസെക്കൻഡ് ആണ് അതു ഗ്രാഫിക്കൽ സ്കെച്ചിങ് ഉത്തരവുമായി സാമ്യം ഉണ്ട് പക്ഷെ ഇതൊക്കെ ലളിതമായ എക്സ്പ്രഷ്ൻ ആയത്കൊണ്ട് അതു വേഗം ചെയാം ഒരു തെറ്റും കൂടാതെ അതെ സ്ഥാനത്തു ഗ്രാഫിക്കൽ ആയിട്ടുള്ളത് തെറ്റുകൾക്ക് കൂടുതൽ വിധേയം ആണ് അതോടൊപ്പം അതു കൂടുതൽ സമയം എടുക്കുന്നു ഇപ്പോൾ മുതൽ മാത്തമറ്റിക്കൽ എക്സ്പ്രഷ്ൻ നേരിട്ടു നമ്മുടെ എല്ലാ ഉദാഹരണങ്ങളും നമുക്ക് ഉപയോഗിക്കാം ഗ്രാഫിക്കൽ സൊല്യൂഷൻ സഹായത്തോടെ ലിയു ലഹോവ്സ്ക്യ ക്രൈറ്റീരിയോന്റെ liu lehoczkys criterion പ്രധാന കാര്യങ്ങൾ നമ്മൾ കണ്ടു പക്ഷെ ഇതിന്ടെ ഫലം കിട്ടാൻ ആയി നമ്മൾ മാത്തമറ്റിക്കൽ എക്സ്പ്രഷ്ൻ ഉപയോഗിക്കണം ലിയു ലഹോക്സ്ക്യ് ക്രൈറ്റീരിയോണിൽ നിന്നും liu lehoczkys criterion ടാസ്ക് സെറ്റ് ഷ്ഡ്യൂളബിൽ ആണെന്ന് നമ്മൾ കണ്ടു താഴെ പറയുന്ന പ്രശ്നത്തിൽ 3 ടാസ്കുകൾ ഉണ്ട് അതിൽ ടാസ്ക് T1ന്ടെ എക്സിക്യൂഷൻ ടൈം 10ഉം പീരീഡ്ഉം ഡെഡ്ലൈനും 50 ആണ് അതിനോടൊപ്പം അതിന്ടെ ഫേസ് 100മില്ലിസെക്കന്റ് ആണ് അതിനോടൊപ്പം താഴെ ഉള്ള എല്ലാം മില്ലി സെക്കന്റ് ആണ് ടാസ്ക് T2ന്ടെ എക്സിക്യൂഷൻ ടൈം 20ഉം പീരീഡ്ഉം ഡെഡ്ലൈനും 60ഉം അതിന്ടെ ഫേസ് 0ഉം ആണ് ടാസ്ക് T3 യുടെ എക്സിക്യൂഷൻ ടൈം 30 ഉം പീരീഡ്ഉം ഡെഡ്ലൈനും 60ഉം അതിന്ടെ ഫേസ് 50ഉം ആണ് ലിയു ലെയ്ലാൻഡ് നിബന്ധന പരിശോദിച്ചു അതു ലിയു ലെയ്ലാൻഡ് നിബന്ധന പ്രകാരം ഷ്ഡ്യൂൽ ചെയാൻ പറ്റുമോ ഇലയോ എന്നു നോക്കാം ടാസ്ക് സെറ്റ് ഷ്ഡ്യൂളബിൽ അല്ലായെന്നു ലിയു ലഹോക്സ്ക്യ് ക്രൈറ്റീരിയൻ കൂടി പരിശോധിക്കേണ്ടത് ഉണ്ട് പക്ഷെ ഒരു ടാസ്ക് സെറ്റ് ലിയു ലെയ്ലാൻഡ് ക്രൈറ്റീരിയൻ അതോടൊപ്പം ലിയു ലഹോക്സ്ക്യ് ക്രൈറ്റീരിയൻ തോറ്റു എന്നു കരുതുക അപ്പോൾ ഉയർന്ന ചോദ്യം അതു സുരക്ഷിതം ആയി അവസാനിപ്പിക്കാൻ കഴയുമോ എന്നതാണ് അതായത് ടാസ്ക് സെറ്റ് അൺഷ്ഡ്യൂളബിൽഉം അല്ലെകിൽ ടാസ്ക് സെറ്റ് ഷ്ഡ്യൂൽ ചെയാൻ ഒരു സാധ്യത ഇനിയും ഉണ്ടോ എന്നതും ആണ് ഇതിനുള്ള ഉത്തരം ഒരു ടാസ്ക് സെറ്റ് ലിയു ലഹോക്സ്ക്യ് ക്രൈറ്റീരിയൻ തോറ്റു പോയാലും അതു അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കാൻ സാധ്യത ഉണ്ട് ഇതിന് പിന്നിലെ പ്രധാന കാരണം ലിയു ലഹോക്സ്ക്യ് ക്രൈറ്റീരിയൻഇൽ നമ്മൾ വേർസ്റ് കേസ് കണ്ടിഷൻ പരിശോധിച്ചിരുന്നു അവിടെ ടാസ്ക് ഫേസ്ഇൽ വരുന്നു ഒപ്പം എല്ലാ ഉയർന്ന പ്രിയോറിറ്റി ടാസ്കുകൾ പക്ഷെ തന്നിരിക്കുന്ന ഒരു ടാസ്ക് സെറ്റിനു ഇതു സംഭവിക്കണമെന്നു ഇല്ലാ എല്ലാ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകളും 0 ഫേസിങ് ഉണ്ടാകുന്നില്ല അതായത് ടാസ്ക് സെറ്റ് ലിയു ലഹോക്സ്ക്യ് ക്രൈറ്റീരിയോണ് തോറ്റാലും പക്ഷെ അതു അതിന്ടെ ടാസ്ക് ഡെഡ്ലൈൻ പാലിച്ചേനെ പക്ഷെ അപ്പോൾ ഇതുപോലത്തെ കേസുകൾ കുറവാണ് ടാസ്ക് സെറ്റ് ലിയു ലഹോക്സ്ക്യ് ടെസ്റ്റ് തോറ്റു പോകുന്നത് അതോടൊപ്പം അതിന്ടെ ഡെഡ്ലൈൻ പാലിക്കുകയും ചെയുന്നു ഈ പറയുന്നവയാണ് റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളിങ്ഇൽ ഉള്ള ചില പ്രശ്നങ്ങൾ ഇതിൽ ആദ്യം പരിശോധിക്കേണ്ടത് ട്രാന്സിറ്ന്റ് ഓവർലോഡ് ആണ് ടാസ്ക് റിസൾട്ട് ലോഗിംഗ് പോലെയോ അല്ലെകിൽ ഹെൽത്ത് മോണിറ്ററിങ് ചെക്കിങ് പോലെയോ ഉള്ള ചില ടാസ്കുകൾ താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ ആണ് അതോടൊപ്പം ഇതിൽ ഏതെങ്കിലും ടാസ്ക് എന്തെകിലും കാരണത്താൽ വൈകിയാൽ അതു ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ക്രിട്ടിക്കൽ ടാസ്കിനെ ബാധിക്കും താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കിനു ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കിനെ അഫക്ട് ചെയാൻ കഴിയുന്നിലെക്കിക് നമുക്ക് പറയാം അതു ട്രാന്സിറ്ന്റ് ഓവർലോഡ്ഇന് കീഴിൽ സ്റ്റേബിൾ ആണ് പക്ഷെ താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ വൈകിയാൽ അതു ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകളെയും വൈകിക്കും അങ്ങനെ ആണെകിൽ നമുക്ക് പറയാം സിസ്റ്റം അൺസ്റ്റേബിൾ ആണ് അല്ലെകിൽ മോശം ട്രാന്സിറ്ന്റ് ഓവർലോഡ് ഹാൻഡ്ലിങ് കപ്പാസിറ്റി ആണ് അതിനു ഇതു EDF ന്ടെ കേസിൽ ശെരി ആയിരുന്നു ഇനി കാണുന്നത് റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളിന്ടെ പരിശോധന ആണ് റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളിങ് ട്രാന്സിറ്ന്റ് ഓവർലോഡ് കണ്ടിഷൻസ് കീഴിൽ സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം റേറ്റ് മോനോടോണിക് അൽഗോരിതം ട്രാന്സിറ്ന്റ് ഓവർലോഡ് കണ്ടിഷൻസ് ഉള്ളപ്പോൾ സ്റ്റേബിൾ ആണ് റേറ്റ് മോനോട്ടോനിക് ഷ്ഡ്യൂളറിൽ താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് ഒരിക്കലും ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കിന്റെ ഡെഡ്ലൈൻ നഷ്ടപെടുതാൻ കാരണമാകുന്നില്ല കാരണം ഇതിന്റെ അടിസ്ഥാന തത്വമ് എന്നത് ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് എക്സിക്യൂഷന് തയാർ ആണെകിൽ താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് പൂർത്തിയാക്കിയില്ലെകിൽ പോലും മത്തേതു ചെയാൻ എടുക്കുന്നു അതുകൊണ്ട് RMA ശെരിക്കും സ്റ്റേബിൾ ആണ് താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കിനെ പ്രീ എംപ്ട് ചെയുന്നു ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ വരുമ്പോൾ താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാ അതു കാണിക്കുന്നത് റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളിങ് ട്രാന്സിറ്ന്റ് ഓവര്ലോസ് ഉള്ളപ്പോഴും സ്റ്റേബിൾ ആയി പ്രവര്തികുന്നു കാരണം എപ്പോഴൊക്കെ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ വരുന്നുണ്ടോ അതു താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ പൂർത്തിയാകാത്തപ്പോൾ ആണെകിലും താഴ്ന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾകു വേണ്ടി cpu യീൽഡ് ചെയുന്നു ഇതിന്റെ വിപരീതമാണ് EDFഇൽ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതു റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളിങ്ന്ടെ വളരെ പോസിറ്റീവ് ആയ സവിശേഷത ആണ് അതോടൊപ്പം അതിന്ടെ കോഴ്സ്ഉം വളരെ ലളിതമായ പ്രവർത്തനമുള്ള റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളർ എല്ലാ ടാസ്കുകളും ക്യൂവിൽ വെകുന്നു വരുന്ന ടാസ്കുകൾ നമ്മൾ ക്യൂവിൽ വെക്കും ഓരോ തവണയും ഒരു ടാസ്ക് ഇവന്റ് വരുമ്പോഴോ കംപ്ലീഷൻ ഇവന്റ് ഉണ്ടാകുമ്പോഴോ ക്യൂവിൽ കാത്തു നിൽക്കുന്ന ടാസ്കുകളിൽ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് ഏത് ആണെന് പരിശോധിക്കുകയും ചെയ്യും പക്ഷെ ഈ അവസ്ഥാ നമ്മൾ വിലയിരുതുക ആണെകിൽ ഒരു ടാസ്ക് വരുമ്പോൾ ഇൻസെർഷൻ സമയത്തു അതു നമ്മൾ ക്യൂവിന്ടെ അവസാനം വെകുന്നു അതുകൊണ്ട് ഇൻസെർഷൻ സമയം 1 ആണ് പക്ഷെ ഓരോ ഷ്ഡ്യൂളിങ് പോയിന്റ്ഇലും അതായത് ഒരു ടാസ്ക് വരുമ്പോഴോ പൂർത്തിയാകുമ്പോഴോ ക്യൂ മുഴുവൻ നമ്മൾ പരിശോധിക്കേണ്ടത് ഉണ്ട് കാത്തു നിൽക്കുന്ന ടാസ്കുകളിൽ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് ഏത് ആണെന് അറിയാൻ അതോടൊപ്പം അതു O ക്യൂവിൽ n ടാസ്കുകൾ കാത്തുനില്കുന്നുണ്ടെകിൽ അതു ഒരു മെച്ചപ്പെട്ട പോവഴി അല്ല ഇതിൽ ഒരു പ്രിയോറിറ്റി ക്യൂ വേകുന്നതു ഒരു പോവഴി ആണ് കാരണം പ്രിയോറിറ്റി ക്യൂ ഒരു ഹീപ് അടിസ്ഥാനത്തിൽ പ്രവർത്തിപികാം ഒരു ഹീപ് ഒരു അറയ്വെച്ചു പ്രവർത്തിപികാം അതോടൊപ്പം നമ്മൾ ഒരു അറയ് ഡാറ്റാ സ്ട്രക്ച്ചർ ഉപയോഗിക്കുന്നു ഒരു ഹീപിനായി അതിന്ടെ ഇൻസെർഷൻ log n ആണ് പിന്നെ ഹീപ് അൽഗോരിതമിൽ ഹീപ് ഇൻസെർഷൻ O ആണ് അതിൽ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് എളുപ്പത്തിൽ Oഇൽ കിട്ടും ഇതു ലിങ്കഡ് ലിസ്റ്റ് വെച്ചു നോക്കുംപോൾ ഒരു ഭേദപെട്ട പോവഴി ആണെകിലും ഇതു അത്ര നല്ലത് അല്ല കാരണം ഓരോ ഷ്ഡ്യൂളിങ് പോയിന്റിലും ഒരു ടാസ്ക് വരുമ്പോൾ ആ ടാസ്ക് ഹീപിൽ കയറ്റണം അതു log n ആണ് ഇതു ഒരു മൾട്ടി ലെവൽ ഫീഡ്ബാക് ക്യൂ ഉപയോഗിച്ച് മെച്ചപ്പെടുത്താം ഇതാണ് ശെരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപികുമ്പോൾ റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളറിൽ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഐഡിയ ഫിക്സഡ് സെറ്റ് പ്രിയോറിറ്റി മാത്രമേ അനുവദിക്കൂ എന്നതാണ് കുറച്ചു ക്ലാസ്സുകൾക്ക് ശേഷം നമുക്ക് POSIX റിയൽ ടൈം സ്റ്റാൻഡേർഡ് ചർച്ച ചെയാം അതോടൊപ്പം ലഭ്യമായ പ്രിയോറിറ്റി ലെവൽ എണം സാധരണ 16ഉം ചില സാഹചര്യത്തിൽ 32ഉം ആണ് പക്ഷെ ഫിക്സഡ് ആയ പ്രിയോറിറ്റി ലെവൽ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ക്യു ആകാം ഓരോ തവണയും ടാസ്ക് വരുമ്പോൾ ടാസ്കുകൾക്കു പ്രിയോറിറ്റി ഒന്നു കൊടുത്താൽ നമ്മൾ അതിനെ ക്യൂവിൽ എടുത്ത് വെക്കുന്നു അതിനൊപ്പം അതു പൂർത്തിയാകുമ്പോൾ അതു കാത്ത് ഇരിക്കുന്നു അതിന്ടെ പീരീഡ് കഴയുന്നവരെ നമ്മൾ ഒരു പുതിയ ഇൻസ്റ്റൻസ് കയറ്റുന്നു അതു നമ്മൾ എല്ലാ ടാസ്ക് പ്രിയോറിറ്റി ലെവൽ ചെയുന്നു ഇൻസെർഷൻ O ആണ് പക്ഷെ ടാസ്ക് ഒരു ഷ്ഡ്യൂളിങ് പോയിന്റ് നിന്നും തിരഞ്ഞെടുകുന്നതും O ആണ് കാരണം ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് എതാണ് എന്നു നമ്മൾ പരിശോധിക്കണം അതോടൊപ്പം ഏതെങ്കിലും ക്യൂവിൽ ടാസ്ക്സ് ഉണ്ടോയെന്നും ക്യൂവിൽ ഒന്നിൽ തുടങ്ങുന്ന ടാസ്ക് ഉണ്ടെങ്കിൽ ഷ്ഡ്യൂളർ അതിൽ ആദ്യം കാത്തു നിൽക്കുന്ന ടാസ്ക് നോക്കുന്നു അതോടൊപ്പം അതു എടുക്കുന്ന അതു O ആണ് അതോടൊപ്പം അതിൽ നിയത്രിതമായ ടാസ്ക് ലെവൽ എണം ആണ് ഉള്ളത് അതുകൊണ്ട് അതു ചില ലിമിറ്റ് നോക്കണം അതോടൊപ്പം ഒരു ടാസ്ക് ക്യൂയിൽ ഒരു ടാസ്ക് കയറ്റുനതും അതിൽ നിന്നും ഒരു ടാസ്ക് എടുകുനതും O ആണ് അതു വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം ആണ് അതുകൊണ്ട് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തനം നമ്മൾ ചർച്ച ചെയ്തു അതിൽ റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളർ എല്ലാ റിയൽ ടൈം സിസ്റ്റംത്തിലും ഒരു മൾട്ടി ലെവൽ ക്യൂ ഉപയോഗിച്ച് ആണ് പ്രവർത്തികുന്നത് എന്നും നമ്മൾ കണ്ടു അവ റിയൽ ടൈം ടാസ്ക്സ് ഷ്ഡ്യൂളിങ് റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളർ വഴി പിന്തുണക്കും ഒരു ഫിക്സ്ഡ് പ്രിയോറിറ്റി സെറ്റ് നൽകികൊണ്ട്